ഹലോ എല്ലാവർക്കും സെക്യൂർ സിസ്റ്റംസ് എഞ്ചിനീയറിംഗ് ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് കൺഫൈൻമെൻറ് എന്ന പ്രോബ്ലെംതെ കുറിച്ചാണ് കൂടാതെ OKWS server എങ്ങനെയാണ് പ്രിൻസിപ്പൽ ഓഫ് ലീസ്റ് പ്രിവിലേജസ് എന്ന തത്വം ഉപയോഗിച്ച് ഡിസൈൻ ചെയ്യുന്നതെന്നും എന്നും നമ്മൾ കണ്ടു അതുമൂലം ഒരു അറ്റാക്കറിനു സിസ്റ്റത്തെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത ഗണ്യമായി കുറഞ്ഞു കൂടാതെ എങ്ങനെയാണ് OKWS യൂണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലഭ്യമാക്കുന്ന വിവിധങ്ങളായ ആക്സസ് കൺട്രോൾ പോളിസികളെ ഉപയോഗിച്ചതെന്നും നമ്മൾ കണ്ടു ഇനി നമ്മൾ കാണാൻ പോകുന്നത് സോഫ്റ്റ്വെയർ ഫോൾട്ട് ഐസോലേഷൻ നെ കുറിച്ചാണ് അതിലേക്കു പോകുന്നതിനു മുമ്പ് ഒരു വെബ് ബ്രൌസർ ന്റെ യൂസ് കേസ് നോക്കാം മുൻപ് ഉള്ള ക്ലാസ്സിൽ നമ്മൾ വെബ് സർവർ നെക്കുറിച്ച് കണ്ടു ഇപ്പോൾ വെബ് സർവർ ൻറെ ഒരു ക്ലൈന്റ് aspect ആയ വെബ് ബ്രൌസർ നെക്കുറിച്ച് ആണ് കാണുന്നത് എല്ലാവരും വെബ് ബ്രൌസർ യൂസ് ചെയ്തിട്ടുള്ളവർ ആയിരിക്കും നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാകാം വെബ് ബ്രൌസറിൽ ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിൻറെ കണ്ടൻസ് ഡിസ്പ്ലേ ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോഗ്രാമിങ് ലാംഗ്വേജസ് സാധാരണയുള്ള C അല്ലെങ്കിൽ C പോലുള്ള ലാംഗ്വേജ് ൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരിക്കും നമുക്ക് വെബ് ബ്രൌസറിൻറെ പ്രത്യേകമായ ഒരു ആപ്ലിക്കേഷനിൽ നിന്നും തുടങ്ങാം നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ പോലെ വെബ് ബ്രൌസർ ഒരു വെബ്സർവറിലേക്ക് കണക്റ്റുചെയ്യുന്നു ഉദാഹരണത്തിന് Google ഇത് വെബ് പേജിൻറെ കണ്ടൻസ് ഡൌൺലോഡ് ചെയ്യുകയും അത് നമുക്ക് കാണിച്ചു തരികയും ചെയ്യും ഇത്തരത്തിൽ സർവറിൽ നിന്ന് ഡൌൺലോഡ് ചെയ്തു നമ്മുടെ സ്വന്തം കമ്പ്യൂട്ടറിൽ റൺ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന പ്രോഗ്രാമിങ് ലാംഗ്വേജസ് ഉണ്ട് ഉദാഹരണത്തിന് Javascript ഈ സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ഉയർന്നുവരുന്ന ഒരു ചോദ്യമാണ് എന്തിനാണ് വെബ് ബ്രൌസർ നു വേണ്ടി പ്രത്യേക പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിക്കുന്നത് എന്തിനാണ് ജാവാസ്ക്രിപ്റ്റ് പോലുള്ള ഉള്ള ലാംഗ്വേജസ് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ട് C അല്ലെങ്കിൽ C പോലുള്ള ലാംഗ്വേജസ് ബ്രൌസർൻറെ ഒപ്പം ഉപയോഗിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ വെബ് ബ്രൌസർ വെബ് സർവറിനോട് ബന്ധപ്പെടുകയും C അല്ലെങ്കിൽ C ഉപയോഗിച്ച് എഴുതിയിട്ടുള്ള പ്രോഗ്രാം ഡൌൺലോഡ് ചെയ്തു എക്സിക്യൂട്ട്ചെയ്യുകയും ചെയ്യും ഇത്തരത്തിലുള്ള രീതി സെക്യൂരിറ്റിയെ കുറിച്ച് വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത് CC പ്രോഗ്രാം ഉപയോഗിച്ച് നിരവധി സിസ്റ്റം ലെവൽ കാര്യങ്ങൾ ആക്സസ് ചെയ്യാൻ കഴിയും ഉദാഹരണത്തിന് ഫയലിൽ കൃത്രിമത്വം കാണിക്കുക ഫയൽ മായിച്ചു കളയുക സിസ്റ്റം കോൾസ് നേരിട്ട് വിളിക്കുക തുടങ്ങിയവ ഇത് യഥാർത്ഥത്തിൽ വളരെയധികം പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം CC പോലുള്ള ലാംഗ്വേജ് ഒരു webbrowser ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാൻ ഉപയോഗിക്കാത്തതിനു പ്രധാന കാരണം സെക്യൂരിറ്റി ആണ് CC code നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് കൂടുതൽ സുരക്ഷിതമായ അന്തരീക്ഷം ഉണ്ടാക്കാൻ വെബ്ബ് ബ്രൌസറിൽ പ്രോഗ്രാം റൺ ചെയ്യുന്നതിന് ജാവാസ്ക്രിപ്റ്റ് പോലുള്ള ലാംഗ്വേജ് ഉപയോഗിക്കുന്നതിലേക്ക് പരിമിതപ്പെടുത്തിയിരിക്കുന്നു ജാവാസ്ക്രിപ്റ്റ് വളരെ പരിമിതികളോടെ ആണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നിങ്ങളിൽ ചിലരെങ്കിലും ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ച് പ്രോഗ്രാം ചെയ്തിട്ടുണ്ടാവും CC പ്രോഗ്രാമിൽ നിന്നും വ്യത്യസ്തമായി ആയി ഇതിൻറെ API വളരെ പരിമിതമാണ് അതുകൊണ്ട് സിസ്റ്റം ലെവലിൽ ഉള്ള ധാരാളം ജോലികൾ ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് ബ്രൌസറിൽ റൺ ചെയ്യുന്ന ക്ലൈന്റ് പ്രോഗ്രാം എപ്പോഴും സുരക്ഷിതമായിരിക്കും ജാവാസ്ക്രിപ്റ്റ് വെബ് ബ്രൌസറിൽ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഏറ്റവും വലിയ പ്രശ്നം അത് വളരെ വരെ സാവധാനത്തിൽ run ചെയ്യുന്നു എന്നതാണ് ഉയർന്ന നിലവാരത്തിലുള്ള ഉള്ള വെബ്പേജുകൾക്കായി ഉദാഹരണത്തിന് games ജാവാസ്ക്രിപ്റ്റ് തെല്ലും ഉപയോഗപ്രദം അല്ല കാരണം റെൻഡറിങ് അങ്ങേയറ്റം സാവധാനത്തിൽ ആയിരിക്കും ഈ കാരണത്താൽ CC ഉപയോഗിച്ച് വെബ് ബ്രൌസറിൽ നമുക്ക് ആവശ്യമായ performance നേടിയെടുക്കാം എന്നാൽ ഒരു വെബ് browserൽ CC കോഡ് പ്രവർത്തിപ്പിക്കുന്നത് ഗുരുതരമായ സുരക്ഷാ വീഴ്ചക്ക് കാരണമാകും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നേരത്തെ ഉപയോഗിച്ചിരുന്നത് ആക്റ്റീവ് എക്സ് കമ്പോണന്റ് ആണ് മൈക്രോസോഫ്ട് വിൻഡോസ് ഓപ്പറേറ്റിങ് സിസ്റ്റത്തിൽ C അല്ലെങ്കിൽ VC പോലുള്ള കോഡ് വികസിപ്പിച്ചെടുക്കാൻ Active X component സഹായിച്ചിരുന്നു ഇതു ബ്രൌസറിൽ നിന്നും നേരിട്ട് ഇൻവോക് ചെയ്യാം തന്നിരിക്കുന്ന ചിത്രത്തിൽ എങ്ങനെയാണ് ഇൻറർനെറ്റ് എക്സ്പ്ലോററിൽ ആക്റ്റീവ് എക്സ് കമ്പോണന്റ് ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ഉള്ള മെസ്സേജ് ഉയർന്നു വരുന്നത് എന്ന് കാണിച്ചിരിക്കുന്നു യൂസർ അതിൽ ക്ലിക്ക് ചെയ്താൽ ആക്റ്റീവ് എക്സ് കമ്പോണന്റ് ഇവിടെ റൺ ചെയ്യാം ഇപ്പോൾ CC ഉപയോഗിച്ച് എഴുതിയിട്ടുള്ള ആക്ടീവ് എക്സ് കമ്പോണന്റ് വെബ് സെർവറിൽ നിന്നും ഡൌൺലോഡ് ആവുകയും അത് യൂസർ ന്റെ കമ്പ്യൂട്ടറിൽ വരികയും ചെയ്യും തുടർന്ന് ആക്ടീവ എക്സ് കമ്പോണന്റ് എക്സിക്യൂട്ട് ചെയ്യാം ഇത് ഒരിക്കലും സുരക്ഷിതമായ ഒരു രീതി അല്ല ഇതിൽ നമുക്ക് അവകാശപ്പെടാവുന്ന ഒരു സുരക്ഷ മെസ്സേജ് വരുമ്പോൾ ആക്ടീവ എക്സ് കമ്പോണന്റ് റൺ ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ യൂസർ നു സാധിക്കും എന്ന് മാത്രമാണ് വളരെ അധികം ആളുകൾ ഇതിൻറെ സുരക്ഷിത വശങ്ങളെക്കുറിച്ചും അതുമായി ആയി ബന്ധപ്പെട്ട സുരക്ഷാ പ്രശ്നങ്ങളെ കുറിച്ചും അറിവ് ഇല്ലാത്തതിനാൽ ആക്ടീവ് എക്സ് കമ്പോണന്റ് ഡൌൺലോഡ് ചെയ്യുകയും അതു പലതരത്തിലുള്ള ഉള്ള സുരക്ഷാ വീഴ്ചയ്ക്ക് കാരണമാവുകയും ചെയ്യും ഇന്ന് നമ്മൾ കാണുന്നത് കൂടുതൽ മികച്ച രീതിയിൽ ഈ സഹചര്യം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ് ഫൈൻ ഗ്രെയിൻഡ് കൺഫൈൻമെൻറ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇത് CC കോഡ് റൺ ചെയ്യാൻ ആവശ്യമായ സുരക്ഷിത സാഹചര്യം നൽകും കുറച്ചു വർഷങ്ങൾക്കു മുൻപുവരെ ഗൂഗിൾ ക്രോം വെബ് ബ്രൌസർ ഫൈൻ ഗ്രെയിൻഡ് കൺഫൈൻമെൻറ് നേടിയെടുക്കാൻ നേറ്റീവ് ക്ലൈൻറ് അല്ലെങ്കിൽ എൻ എ സി എൽ ഉപയോഗിച്ചിരുന്നു എന്താണ് ഫൈൻ ഗ്രെയിൻഡ് കൺഫൈൻമെൻറ് ഒന്നു നോക്കാം ഇവിടെ നമ്മൾ പ്രത്യേകമായി ചർച്ച ചെയ്യുന്നത് സോഫ്റ്റ്വെയർ ഫോൾട്ട് ഐസൊലേഷൻ എന്ന പേപ്പറിനെ കുറിച്ചാണ് നമുക്ക് എന്താണ് ഇതിൽ നിന്നും നേടാൻ കഴിയുക ഈ ആപ്ലിക്കേഷൻ നോക്കുക ഇത് ഒരു പ്രോസസ് ആയി പരിഗണിക്കാം നമുക്ക് അറിയാം ഇതിൽ ഒരു ഫങ്ക്ഷന് മറ്റ് ഏത് ഫങ്ക്ഷനെയും ഇൻവോക് ചെയ്യാം അതുപോലെ ഏതൊരു ഫംഗ്ഷനും ഗ്ലോബൽ ഡാറ്റ അല്ലെങ്കിൽ ഹീപ് ഏരിയയിലുള്ള ഉള്ള ഡാറ്റ അക്സസ്സ് ചെയ്യാം ഒരു പ്രോസസ്സിന് ഫൈൻ ഗ്രെയിൻഡ് കൺഫൈൻമെൻറ് നൽകുന്നതുവഴി നമ്മൾ പ്രത്യേകമായി ഒരു കമ്പാർട്ട്മെൻറ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അവിടെ റൺ ചെയ്യുന്ന കോഡ് കമ്പാർട്ട്മെൻറ് അതിർത്തികൾ വഴി സുരക്ഷിതം ആക്കിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള സാഹചര്യം കാരണം ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ഫങ്ഷന് പുറത്തുള്ള മറ്റൊരു ഫങ്ക്ഷനെ നേരിട്ട് വിളിക്കാൻ ആവില്ല അതുപോലെ ഈ ഏരിയയിൽ ഉള്ള ഫങ്ക്ഷന് ഗ്ലോബൽ ഡാറ്റ അല്ലെങ്കിൽ ഹീപ് ഏരിയയിലുള്ള ഉള്ള ഡാറ്റ അക്സസ്സ് ചെയ്യാനും സാധിക്കില്ല അതിൻറെ മറ്റൊരുവശം കൺഫൈൻഡ് ഏരിയയിൽ ഉള്ള ഒരു ഫംഗ്ഷന് അവിടെ തന്നെ ഉള്ള മറ്റൊരു ഫങ്ക്ഷനെ വിളിക്കാനുംഗ്ലോബൽ ഡേറ്റാ അല്ലെങ്കിൽ ഹീപ് ആക്സസ് ചെയ്യാനും സാധിക്കും ഇത്തരത്തിലുള്ള സാഹചര്യം നേടിയെടുക്കാൻ നമ്മൾ രണ്ടു കാര്യങ്ങൾ ശ്രദ്ധിക്കണം ആദ്യത്തേത് എങ്ങനെയാണ് ഒരു മൊഡ്യൂൾ ൻറെ കാര്യപ്രാപ്തി നമ്മൾ നിയന്ത്രിക്കുക എന്നതാണ് ഇത്തരത്തിൽ ഒരു കൺഫൈൻഡ് മോഡ്യൂളിൽ ഉള്ള ഒരു ഫംഗ്ഷൻ പുറത്തുള്ള മറ്റൊരു ഫങ്ക്ഷനെ ആക്സസ് ചെയ്യാതെ ഇരിക്കാൻ എങ്ങനെ എങ്ങനെ തടയാൻ കഴിയും രണ്ടാമത്തേത് ഈ മോഡ്യൂളിൽ ഉള്ള ഡേറ്റാ പുറത്തുനിന്ന് റീഡ് ചെയ്യുന്നതും റൈറ്റ് ചെയ്യുന്നതും എങ്ങനെ തടയാൻ കഴിയും അതിനുള്ള ഒരു മാർഗ്ഗം നമ്മൾ നേരത്തെ കണ്ട OKWS ഉപയോഗിക്കുക എന്നതാണ് അവിടെ നമ്മൾ റിമോട്ട് പ്രൊസീജിയർ കോൾ ആണ് ഉപയോഗിച്ചത് ഇതിൽ കൺഫൈൻഡ് ഏരിയ ഒരു പ്രോസസ് ആയിട്ടാണ് കണക്കാക്കിയത് റിമോട്ട് പ്രൊസീജിയർ കോൾ ഉപയോഗിച്ചാണ് വിവിധ പ്രോസസ് ആശയവിനിമയം നടത്തുന്നത് എന്നാൽ ആർ പി സി ഉപയോഗിക്കുന്നത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും ഓരോ പ്രാവശ്യവും ആർ പി സി ഇൻവോക് ചെയ്യുമ്പോൾ അവിടെ ഒരു കോണ്ടെക്സ്റ്റ് സ്വിച്ച് ആവശ്യമായി വരും ഇതിന് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആവശ്യമാണ് ആർ പി സി ശരിയായ പ്രോസസ്സിനെ ആണ് വിളിച്ചത് അത് കൃത്യമായി പ്രവർത്തിച്ചു തുടർന്ന് ആദ്യത്തെ പ്രോസസ്സ് ലേക്ക് തിരിച്ചു വരുമ്പോഴുള്ള കോണ്ടെക്സ്റ്റ് സ്വിച്ച് ഇതെല്ലാം ഓപ്പറേറ്റിംഗ് ആണ് ഉറപ്പുവരുത്തേണ്ടത് ഓരോ തവണയും ആർ പി സി ഉപയോഗിക്കുമ്പോൾ രണ്ട് കോണ്ടെക്സ്റ്റ് സ്വിച്ച് ആവശ്യമായിവരും ഒന്ന് റിമോട്ട് പ്രൊസീജിയർ വിളിക്കുന്നതിനു മറ്റൊന്ന് തിരിച്ചു വരുമ്പോഴും കോണ്ടെക്സ്റ്റ് സ്വിച്ച് വളരെ ഹെവി ആണ് അത് പ്രവർത്തനത്തെ ബാധിക്കുകയും ചെയ്യും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ഫൈൻ ഗ്രെയിൻഡ് കൺഫൈൻമെൻറ് ഉപയോഗിച്ച് നമ്മൾ ഒരു അഡ്രസ് സ്പേസ് ഉണ്ടാക്കിയെടുക്കുകയും അതിൽ ഉള്ള ഒരു ക്ലോസ്ഡ് കമ്പാർട്ട്മെൻറ് കോഡ് അല്ലെങ്കിൽ ഡാറ്റാ സുരക്ഷിതമായി എക്സിക്യൂട്ട് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നമ്മൾ ചർച്ച ചെയ്യുന്ന വിദ്യകൾ എഫിഷ്യൻൻറ് സോഫ്റ്റ്വെയർ ഫോൾട് ഐസൊലേഷൻ എന്ന് പേപ്പറിൽ SOSP1993 ഉള്ളതാണ് ഇതിൽ നമ്മൾ ഓരോ പ്രോസസ് സ്പെയ്സ് വിവിധങ്ങളായ ലോജിക്കൽ ഡൊമൈൻ ആയി തരംതിരിക്കുന്നു ഈ ഓരോ ഡൊമൈൻ ഉം ഫോൾട്ട് ഡൊമൈൻ എന്ന് അറിയപ്പെടുന്നു ഓരോ ഡൊമൈൻ ലും ഡാറ്റ യും അതുപോലെതന്നെ കോഡ് ഉം അടങ്ങിയിട്ടുണ്ട് ഓരോ ഡൊമൈൻ ഉം അതിൻ്റെ മാത്രമായ യൂണിക് ഐഡി ഉണ്ട് ഈ സോഫ്റ്റ്വെയർ ഫോൾട്ട് ഐസൊലേഷൻ ഫ്രെയിംവർക്ക് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നു നോക്കാം ഒരു ഫോൾട് ഡൊമൈനിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന കോഡ് ആ പ്രത്യേക ഏരിയയിൽ മാത്രം ഉള്ളതാണ് അവിടെനിന്ന് പുറത്തുള്ള ഫങ്ക്ഷനെ വിളിക്കാനോ അവിടേക്ക് പോകാനോ സാധിക്കില്ല അവിടെ ഉള്ള ഒരു ഫംഗ്ഷന് മറ്റൊരു ഫംഗ്ഷന്നെ വിളിക്കണമെങ്കിൽ ലോ കോസ്റ്റ് ക്രോസ് ഫോൾട് ഡൊമൈൻ ആർ പി സി ഉപയോഗിക്കണം ലോ കോസ്റ്റ് ക്രോസ് ഫോൾട് ഡൊമൈൻ ആർ പി സി നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത സാധാരണ ആർ പി സി പോലെയല്ല ഇതിൽ കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ്ങോOS ഓ ഉൾപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ഇതുവഴി ഉണ്ടാകുന്ന ചെലവ് വളരെ കുറവാണ് നമുക്കറിയാം ഓരോ പ്രോസസ് ഉം പൂജ്യം മുതൽ മാക്സ് വരെ ഉള്ള ഒരു വെർച്വൽ അഡ്രസ്സ് സ്പേസിൽ ആണ് ഉള്ളത് നമ്മൾ ഇതിനെ പ്രോസസ്സിന്റെ യൂസർ സ്പേസ് എന്ന് പറയുന്നു നമ്മൾ ഈ യൂസർ സ്പേസ് പല സെഗ്മെൻറ് ആയി തിരിച്ച് എല്ലാ അഡ്രസ് ലൊക്കേഷൻ ൻറെയും ഹയർ ഓർഡർ ബിറ്റ്സ് ഒരേ പോലെ വരുന്ന വിധത്തിൽ വിന്യസിക്കുന്നു ഉദാഹരണത്തിന് സീറോ എക്സ് എ ബി സി ഡി ഒരു സെഗ്മെൻറ് അതുപോലെ സീറോ എക്സ് എബിസിഡി അതിൻറെ യൂണിക് ഐഡി അല്ലെങ്കിൽ സെഗ്മെൻറ് ഐഡന്റിഫയർ ആണ ഈ സെഗ്മെൻറ് 0Xabcd0000 എന്ന അഡ്രസ്സിൽ തുടങ്ങി 0Xabcdffff വരെ നീളുന്നു ഇവിടെ എല്ലാ മെമ്മറി ലൊക്കേഷനും ഉം 0Xabcd എന്നാണ് ആണ് തുടങ്ങുന്നത് ഒരു സെഗ്മെൻറിലെ ബ്രാഞ്ച് അല്ലെങ്കിൽ ജമ്പ് ഇൻസ്ട്രക്ഷൻ അതെ സെഗ്മെന്റിൽ തന്നെ അവസാനിക്കണം ഇത് ഉറപ്പാക്കാൻ അതിൻറെ ടാർജറ്റ് അഡ്രസിൻറെ ഹയർ ഓർഡർ ബിറ്റ്സ് പരിശോധിച്ചാൽ മതിയാകും ഇവിടെ അത് സീറോ 0Xabcd ആണ് അതുപോലെ ഓരോ ഇൻസ്ട്രക്ഷൻ ഉം ഡാറ്റ ആക്സസ് ചെയ്യുന്ന അഡ്രസ്സ് 0Xabcd ൽ ആയിരിക്കും തുടങ്ങുന്നത് ഇങ്ങനെയാണ് സോഫ്റ്റ്വെയർ ഫോൾട്ട് ഐസൊലേഷൻ ഫ്രെയിംവർക്ക് പ്രവർത്തിക്കുന്നത് ഇത് നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചാൽ അതായത് എല്ലാ ബ്രാഞ്ച് അല്ലെങ്കിൽ ജമ്പ് ഇൻസ്ട്രക്ഷൻ നും 0Xabcd എന്ന സെഗ്മെന്റിൽ അവിടെ നിന്നും അത് 64KB വരെ പോകാം ഒതുക്കി നിർത്താൻ സാധിച്ചാൽ എല്ലാ ഇൻസ്ട്രക്ഷനേയും നമുക്ക് ആ സെഗ്മെന്റിൽ കൺഫൈൻ ചെയ്യാൻ സാധിക്കും നമ്മൾ സാധാരണയായി ഇത്തരത്തിലുള്ള ജമ്പ് അല്ലെങ്കിൽ മെമ്മറി ആക്സസ് അനുവദിക്കാറില്ല ഇതിന് നമുക്ക് പല വഴികളുണ്ട് അതിനുവേണ്ടി നമ്മൾ അൺ ട്രസ്റ്റഡ് ഒബ്ജെക്ടിനെ ലോഡ് ടൈമിൽ ചില പരിഷ്കാരങ്ങൾ വരുത്തുന്നു ലോഡിംഗ് സമയത്ത് അതിനെ പാഴ്സിങ് ചെയ്തു എല്ലാം ജമ്പ് അല്ലെങ്കിൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷനേയും കണ്ടുപിടിക്കുന്നു തുടർന്ന് അതിൻറെ എല്ലാം ടാർജറ്റ് അഡ്രസ് അതേ സെഗ്മെന്റിൽ തന്നെയാണ് വരുന്നതെന്ന് ഉറപ്പാക്കുന്നു അതുകൊണ്ട് നമ്മൾ ഇതിനെ ലീഗൽ ജമ്പ് എന്ന് വിളിക്കുന്നു ഒബ്ജക്റ്റ് ഫയൽ മെമ്മറിയിലേക്ക് ലോഡിങ് ചെയ്യുന്ന സമയത്ത് അത് മുഴുവനായി പാഴ്സിങ് ചെയ്തു എല്ലാ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷനും അതുപോലെ ലോഡ് ആൻഡ് സ്റ്റോർ ഇൻസ്ട്രക്ഷനും ലീഗൽ അഡ്രസ്സിലേക്ക് ആണ് ടാർജറ്റ് ചെയ്യുന്നതെന്ന് ഉറപ്പാക്കുന്നു ഇങ്ങനെ രണ്ടു തരത്തിലുള്ള ഇൻസ്ട്രുക്ഷൻസ് നമുക്ക് ഡിഫൈൻ ചെയ്യാ ഒന്ന് സേഫ് ഇൻസ്ട്രക്ഷനും മറ്റൊന്ന് അൺ സേഫ് ഇൻസ്ട്രക്ഷനും മിക്കവാറും ഇൻസ്ട്രക്ഷൻസ് സേഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് ALU ഇൻസ്ട്രക്ഷൻസ് കമ്പാരിസൺ ഇൻസ്ട്രക്ഷൻസ് ഫ്ലോട്ടിങ് പോയിൻറ് ഇൻസ്ട്രക്ഷൻസ് പോലുള്ള ഇൻസ്ട്രക്ഷൻസ് സേഫ് ഇൻസ്ട്രക്ഷൻസ് ആയി കണക്കാക്കുന്നു അതുപോലെ ലോഡ് ടൈം ൽ അല്ലെങ്കിൽ കംപൈൽ ടൈം ൽ ടാർഗറ്റ് അഡ്രസ് കണക്കാക്കുന്ന ഇൻസ്ട്രക്ഷൻസും സേഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് കൂടാതെ ലോഡ് ആൻഡ് സ്റ്റോർ ഇൻസ്ട്രക്ഷൻ ഉപയോഗിക്കുന്ന മെമ്മറി അഡ്രസ് ലോഡ് ടൈം ൽ അല്ലെങ്കിൽ കംപൈൽ ടൈം ൽ ആണ് അഡ്രസ് കണക്കാക്കുന്നത് എങ്കിൽ അതും സേഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് എന്താണ് ശരിക്കും സംഭവിക്കുക എന്ന് ചോദിച്ചാൽ കംപൈലിങ് അല്ലെങ്കിൽ ലോഡിംഗ് സമയത്ത് ഒരു ഒബ്ജക്റ്റ് സെഗ്മെൻറിലേക്ക് ലോഡ് ചെയ്യുമ്പോൾ ആ ഫയൽ ഓപ്പൺ ചെയ്തു ആദ്യം മുതൽ അവസാനം വരെ സ്കാൻ ചെയ്യുക എന്നിട്ട് ബൈനറി കോഡ് മുഴുവൻ ഡിസ് അസംബിൾ ചെയ്ത് ഓരോ ഇൻസ്ട്രക്ഷൻ ആക്കുക എന്നിട്ട് ഓരോ ഇൻസ്ട്രക്ഷൻ ഉം സേഫ് ആണെന്ന് ഉറപ്പാക്കണം എല്ലാ ഇൻസ്ട്രക്ഷൻ ഉം സേഫ് ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ ആ ഒബ്ജക്റ്റ് ഫയൽ സെഗ്മെൻറിലേക്ക് ലോഡ് ചെയ്യാൻ അനുവദിക്കാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഇൻസ്ട്രക്ഷൻ പല തരത്തിൽ ഡിസ് അസംബിൾ ചെയ്യാം ഉദാഹരണത്തിന് 25 CD 80 00 00 എന്ന ബൈനറി ഡേറ്റാ ഡിസ് അസംബിൾ ചെയ്യുമ്പോൾ AND eax 0x000080CD എന്ന് കിട്ടുന്നു നമ്മൾ CD 80 00 00 എന്ന സ്ഥാനത്തു നിന്ന് ഡിസ് അസംബ്ലി സ്റ്റാർട്ട് ചെയ്തുഅതിനുശേഷം നമുക്ക് INT 0x80 എന്ന ഇൻറെപ്റ്റ് ഇൻസ്ട്രക്ഷൻ ഉണ്ടെന്നു വിചാരിക്കുക അത് സിസ്റ്റം കോളിനു വേണ്ടിയുള്ളതാണ് ഇവിടെ AND ഇൻസ്ട്രക്ഷൻ സേഫ് ആണ് എന്നാൽ ഇൻറെപ്റ്റ് ഇൻസ്ട്രക്ഷൻ സേഫ് അല്ല ഡിസ് അസംബിൾ ചെയ്യുമ്പോൾ അൺ സേഫ് ഇൻസ്ട്രക്ഷൻ ഇല്ല എന്ന് ഉറപ്പുവരുത്തണം ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു പ്രശ്നം നമ്മൾ സെഗ്മെൻറിലേക്ക് ലോഡ് ചെയ്യുന്ന ഒബ്ജക്റ്റ് ഫയലിൽ CD പോലുള്ള ഇൻസ്ട്രക്ഷനി ലേക്ക് ഒരു ജബ് ഇൻസ്ട്രക്ഷൻ വന്നാൽ അത് ഇൻറെപ്റ്റ് ലേക്ക് പോവുകയും അൺ സേഫ് ആവുകയും ചെയ്യും ഇവിടെ ഒരു കാര്യം ഉറപ്പാക്കണം എല്ലാം ബ്രാഞ്ച് ഇൻസ്ട്രക്ഷനും അതേ സെഗ്മെന്റിൽ തന്നെയാണ് ടാർജറ്റ് അഡ്രസ്സ് ഉള്ളത് കൂടാതെ ഒരു ലീഗൽ ഇൻസ്ട്രക്ഷൻ ലേക്ക് ആണ് വരുന്നത് എന്നും രണ്ടാമത് പറഞ്ഞ കാര്യം ഉറപ്പാക്കാൻ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് എല്ലാ ഇൻസ്ട്രക്ഷൻ ഉം 32 ബൈറ്റ് ഓഫ്സെറ്റ് വച്ചാണ് തുടങ്ങുന്നത് എന്ന് ഉറപ്പാക്കുകയാണ് ഈ AND ഇൻസ്ട്രക്ഷനിലെ 25 കാണുമ്പോൾ നമുക്ക് അത് മനസ്സിലാവും അതുപോലെ ഈ സെഗ്മെന്റിലെ എല്ലാ ജമ്പ് ഇൻസ്ട്രക്ഷൻ ഉം 32 ബൈറ്റ് ഓഫ്സെറ്റിൽ ആവണം ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി ഓരോ ഇൻസ്ട്രക്ഷനും സ്കാൻ ചെയ്യുമ്പോൾ എല്ലാ ജബ് ഇൻസ്ട്രക്ഷൻറെയും ഹയർ ഓർഡർ ബിറ്റിനു കറക്റ്റ് സെഗ്മെന്റ് വാല്യൂ ആണ് ഉള്ളത് എന്ന് ഉറപ്പാക്കണം രണ്ടാമതായി ടാർജറ്റ് അഡ്രസിൻറെ അവസാനത്തെ 5 ബിറ്റ് 0 ആണെന്നും ഉറപ്പാക്കണം ഇതിൽ നിന്നും ടാർജറ്റ് ഡ്രസ്സ് ലീഗൽ ആണെന്ന് മനസ്സിലാക്കാം സേഫ് ഇൻസ്ട്രക്ഷൻ കൂടാതെ ചില ഇൻസ്ട്രക്ഷൻ നിരോധിക്കപ്പെട്ടതാണ് ഉദാഹരണത്തിന് INT അല്ലെങ്കിൽ sys call ഒരു ഒബ്ജക്റ്റ് ഫയൽ ഫയൽ സ്കാൻ ചെയ്യുമ്പോൾ കംപാർട്മെന്റിനു പുറത്തേക്ക് അല്ലെങ്കിൽ os ലേക് കണ്ട്രോൾ ട്രാന്സ്ഫെർ ചെയ്യാൻ കഴിയുന്ന ഇതുപോലുള്ള ഇൻസ്ട്രുക്ഷൻസ് ഇല്ലെന്ന് ഉറപ്പാക്കണം മറ്റൊരു തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻ ആണ് അൺ സേഫ് ഇൻസ്ട്രക്ഷൻ കോൾഡ് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ ഇത്തരത്തിലുള്ളതാണ് നിരോധിക്കപ്പെട്ട ഇൻസ്ട്രക്ഷൻ കൂടാതെ ഇതുപോലെ ഉള്ള ഇൻസ്ട്രക്ഷനും ഇല്ലെന്ന് ഉറപ്പാക്കണം ഇത്തരത്തിലുള്ള ഇൻസ്ട്രുക്ഷൻറെ ടാർജറ്റ് അഡ്രസ് സ്റ്റാറ്റിക് ആയിട്ട് കണ്ടുപിടിക്കാൻ കഴിയില്ല അത് റൺ ടൈമിൽ മാത്രമേ അറിയാൻ സാധിക്കൂ അൺ സേഫ് ഇൻസ്ട്രക്ഷന് ഉദാഹരണമാണ് ഇൻഡയറക്ട് സ്റ്റോർ ഇൻസ്ട്രക്ഷൻ ഇവിടെ 0x100 എന്ന വാല്യൂ R0 സൂചിപ്പിക്കുന്ന മെമ്മറി അഡ്രസിലേക്ക് സ്റ്റോർ ചെയ്യണം എന്തുകൊണ്ടാണ് ഇത് സുരക്ഷിതമല്ലാത്തത് R0 ന്റെ ഉള്ളടക്കം എന്താണെന്ന് നിർണ്ണയിക്കാൻ കഴിയാത്തതാണ് ഈ STORE നിർദ്ദേശങ്ങളുടെ ടാർഗെറ്റ് വിലാസം പരിഹരിക്കുന്നതിന് റൺടൈം വരെ കാത്തിരിക്കേണ്ടതുണ്ട് അതിനാൽ ഇത് സുരക്ഷിതമല്ലാത്ത നിർദ്ദേശങ്ങൾ സൃഷ്ടിക്കുന്നു അതുപോലെ jump eax പോലുള്ളത് സുരക്ഷിതമല്ലാത്ത നിർദ്ദേശമാണ് അതിനാൽ ഈ പ്രത്യേക നിർദ്ദേശത്തിൽ പ്രോഗ്രാം eax രജിസ്റ്ററിലെ ഉള്ളടക്കത്തെ ആശ്രയിച്ച് ഒരു മെമ്മറി സ്ഥാനത്തേക്ക് ബ്രാഞ്ച് ചെയ്യും ഈ പ്രത്യേക നിർദ്ദേശത്തിന്റെ ടാർഗെറ്റ് വിലാസം റൺടൈമിൽ മാത്രമേ പരിഹരിക്കാനാകൂ അതിനാൽ ഈ നിർദ്ദേശം സുരക്ഷിതമല്ലാത്ത ഒരു നിർദ്ദേശം കൂടിയാണ് റൺടൈം പരിശോധനകൾ നടത്തുക എന്നതാണ് സുരക്ഷിതമല്ലാത്ത നിർദ്ദേശങ്ങൾ പരിഹരിക്കാനുള്ള മാർഗം അതിനാൽ റൺടൈം പരിശോധന നടത്താൻ രണ്ട് വഴികളുണ്ട് ഒന്ന് സെഗ്മെന്റ് മാച്ചിംഗ് എന്നും മറ്റൊന്ന് അഡ്രസ് സാൻഡ്ബോക്സിംഗ് എന്നും അറിയപ്പെടുന്നു സെഗ്മെന്റ് മാച്ചിങ് ൻറെ സ്കീം ഇപ്രകാരമാണ് ഓരോ തവണയും ഒബ്ജക്റ്റിൻറെ ബൈനറി ഫയൽ സ്കാൻ ചെയ്യുമ്പോൾ എല്ലാ നിർദ്ദേശങ്ങളും സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കുന്നു രണ്ടാമത് നിരോധിക്കപ്പെട്ട നിർദ്ദേശങ്ങൾ ഒന്നും ഇല്ല മൂന്നാമത് നിർദ്ദേശം സുരക്ഷിതമല്ലെങ്കിൽ ആ നിർദ്ദിഷ്ട ഒബ്ജക്റ്റ് ഫയലിലേക്ക് ചില കോഡ് അല്ലെങ്കിൽ ചില നിർദ്ദേശങ്ങൾ ചേർക്കുന്നു അങ്ങനെ ചില റൺടൈം പരിശോധനകൾ ഉണ്ടെന്ന് ഉറപ്പാക്കുന്നു ഇത് സെഗ്മെന്റ് മാച്ചിംഗ് റൺടൈം പരിശോധനയ്ക്കുള്ള ഒരു ഉദാഹരണമാണ് ഈ പ്രത്യേക സ്കീമിൽ നമ്മൾ സുരക്ഷിതമല്ലാത്ത ലോഡോ സ്റ്റോറോ ബ്രാഞ്ച് നിർദ്ദേശങ്ങളോ കണ്ടെത്തുമ്പോഴെല്ലാം അതിൻ്റെ ടാർജെറ്റ് അഡ്രസ്സ് ലീഗൽ ആണോ എന്ന് തിരിച്ചറിയാൻ പരിശോധന നടത്തുന്നു അതായത് ആ ബ്രാഞ്ചിന്റെ ടാർജെറ്റ് അഡ്രസ്സ് അല്ലെങ്കിൽ മെമ്മറി ലോഡ് അല്ലെങ്കിൽ സ്റ്റോർ ഇൻസ്ട്രക്ഷന്റെ അഡ്രസ്സ് വാസ്തവത്തിൽ ലീഗൽ ആണോ എന്ന് പരിശോധന നടത്തുന്നു അതിനാൽ ലീഗൽ അഡ്രസ്സിനു ഒരേ സെഗ്മെന്റ് ഐഡി ഉണ്ടായിരിക്കും അതായത് ടാർജെറ്റ് അഡ്രസിന്റെ ഹയർ ബിറ്റ്സ്സ് എല്ലാം യൂണിക് ഐഡി ഉള്ളതായിരിക്കും ഇപ്പോൾ ഈ പരിശോധന ശരിയാണെങ്കിൽ ആ ബ്രാഞ്ച് അല്ലെങ്കിൽ മെമ്മറി ആക്സിസ് നടപ്പിലാക്കാൻ അനുവദിക്കുന്നു മറുവശത്ത് ഈ പ്രത്യേക പരിശോധന പരാജയപ്പെട്ടാൽ ഒരു കെണിയുണ്ട് ഒരു ട്രാപ്പ് ഹാൻഡ്ലർ എക്സിക്യൂട്ട് ചെയ്യപ്പെടും സാധാരണ സംഭവിക്കുന്നത് ഒബ്ജക്റ്റ് ഫയൽ ടെർമിനേറ്റ് ആവുക എന്നതാണ് ഇപ്പോൾ കുറച്ചുകൂടി വിശദമായി സെഗ്മെന്റ് മാച്ചിംഗ് ഉപയോഗിച്ച് എങ്ങനെ ഈ റൺടൈം പരിശോധനകൾ നടത്തും എന്ന് പരിശോധിക്കാം സുരക്ഷിതമല്ലാത്ത ഒരു ബ്രാഞ്ചോ സ്റ്റോർ നിർദ്ദേശമോ ഉള്ളപ്പോഴെല്ലാം ഞങ്ങൾ ചെയ്യുന്നത് റൺടൈമിൽ ഉള്ള അഡ്രസ്സ് കണ്ടുപിടിച്ചു ഇത് മിക്കവാറും ഇത് ഒരു രജിസ്റ്ററിലായിരിക്കും ചില dedicated രജിസ്റ്ററിലേക്ക് ലോഡുചെയ്യും ഈ dedicated രജിസ്റ്റർ പ്രോസസ്സറിലെ രജിസ്റ്ററാണ് ഇത് സാധാരണയായി കംപൈലർ ഉപയോഗിക്കാറില്ല തുടർന്ന് നമ്മൾ ചെക്ക് ചെയ്ത് ടാർഗെറ്റ് അഡ്രസ്സ് അതേ സെഗ്മെന്റിൽ ഉണ്ടെന്ന് ഉറപ്പാക്കുന്നു ഇത് ചെയ്യുന്നതിന് വേണ്ടി ടാർജെറ്റ് രജിസ്റ്റർ contents നെ നിശ്ചിത എണ്ണം ബിറ്റുകൾ ഷിഫ്ട് ചെയ്തു ഒരു unique ID കണ്ടു പിടിക്കുന്നു അത് സെഗ്മെന്റ് ഐഡി ആണ് തുടർന്ന് ഈ unique ID ഒരു സ്ക്രാച്ച് രജിസ്റ്ററിൽ സംഭരിക്കുന്നു തുടർന്ന് യൂണിക് സെഗ്മെന്റ് ഐഡി അടങ്ങിയിരിക്കുന്ന സെഗ്മെന്റ് രജിസ്റ്ററുമായി ഈ unique ID താരതമ്യം ചെയ്യുക അവ തുല്യമല്ലെങ്കിൽ അതിനെ ട്രാപ് ചെയ്യുന്നു എന്നിരുന്നാലും അവ തുല്യമാണെങ്കിൽ ടാർഗെറ്റ് അഡ്രസ്സ് അതേ സെഗ്മെന്റിനുള്ളിലെ നിയമപരമായ ടാർഗെറ്റ് അഡ്രസ്സ് ആണെന്നു ഉറപ്പുണ്ട് തുടർന്ന് ജമ്പ് അല്ലെങ്കിൽ സ്റ്റോർ നിർദ്ദേശം അനുവദിക്കും അതിനാൽ സുരക്ഷിതമല്ലാത്ത ഒരു സ്റ്റോർ അല്ലെങ്കിൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ ഉള്ള ഒബ്ജക്റ്റ് ലോഡ് ചെയ്യുന്ന എല്ലാ സമയത്തും ഈ അധിക പ്രവർത്തനങ്ങളോ നിർദ്ദേശങ്ങളോ നടക്കുന്നു അതിനാൽ ഇവിടെ ചില ഓവർഹെഡുകൾ ഉണ്ടാകാം സമർപ്പിത രജിസ്റ്ററിലേക്ക് ടാർഗെറ്റ് അഡ്രസ്സിനെ മാറ്റണം ഒരു ഷിഫ്ട് ഇൻസ്ട്രക്ഷൻ വേണം ഒരു കമ്പയർ ഇൻസ്ട്രക്ഷൻ ഒബ്ജക്റ്റ് കോഡിൽ ചേർക്കേണ്ടി വരുകയും ചെയ്യുന്നു ഇവ പ്രോഗ്രാമിൽ ഓവർഹെഡുകൾക്ക് കാരണമായേക്കാം ട്രാപ് ഹാൻഡ്ലർ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ സെഗ്മെന്റ് ചെക് ലംഘിച്ച ലോഡ് അല്ലെങ്കിൽ സ്റ്റോർ നിർദ്ദേശങ്ങൾ കൃത്യമായി തിരിച്ചറിയാൻ സാധിക്കും മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സെഗ്മെന്റ് മാച്ചിംഗ് ഒരു ശക്തമായ പരിശോധനയാണ് ക്ലോസ്ഡ് കമ്പാർട്ടുമെന്റിനു പുറത്ത് എക്സിക്യൂഷൻ അല്ലെങ്കിൽ മെമ്മറി ആക്സസ് തടയാൻ മാത്രമല്ല തകരാറിന് കാരണമാകുന്ന നിർദ്ദേശങ്ങൾ തിരിച്ചറിയാനും ഇതിന് കഴിയും ഇത് ട്രാപ് വഴിയാണ് ചെയ്യുന്നത് രണ്ടാമത്തെ രീതിയെ അഡ്രസ്സ് സാൻഡ്ബോക്സിംഗ് എന്ന് വിളിക്കുന്നു അവിടെ സെഗ്മെന്റ് മാച്ചിംഗ് ആയി താരതമ്യപ്പെടുത്തുമ്പോൾ ഓവർഹെഡുകൾ കുറയ്ക്കാൻ നമ്മൾക്ക് കഴിയും പക്ഷേ തെറ്റായ നിർദ്ദേശങ്ങൾ തിരിച്ചറിയാൻ കഴിയില്ല എന്നതാണ് ഇവിടത്തെ പ്രശ്നം എന്നാൽ അഡ്രസ്സ് സാൻഡ്ബോക്സിംഗിൽ നമുക്ക് കൂടുതൽ മികച്ച പ്രകടനം നേടിയെടുക്കാൻ കഴിഞ്ഞു ഇത് ഓരോ ബ്രാഞ്ചോ മെമ്മറി ആക്സസ്സോ ആ സെഗ്മെന്റിലേക്ക് പരിമിതപ്പെടുത്തിയാണ് ഈ പ്രകടനം നേടിയത് ഇത് സെഗ്മെന്റ് മച്ചിങ്ങിൽ നിന്നു തികച്ചും വ്യത്യസ്തമാണ് മറുവശത്ത് അഡ്രസ്സ് സാൻഡ്ബോക്സിംഗ് എല്ലാ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ നും എൻഫോഴ്സ് ചെയ്യും ഇത് എങ്ങനെ ചെയ്യുന്നുവെന്ന് നമുക്ക് നോക്കാം സെഗ്മെന്റ് മാച്ചിംഗ് പോലെ ഇപ്പോൾ ഒബ്ജക്റ്റിന്റെ ബൈനറി ഫയൽ സ്കാൻ ചെയ്യുകയും സുരക്ഷിതമല്ലാത്ത നിർദ്ദേശങ്ങൾക്കായി നോക്കുകയും ചെയ്യുന്നു സുരക്ഷിതമല്ലാത്ത നിർദ്ദേശങ്ങൾ കണ്ടെത്തുമ്പോഴെല്ലാം ആ നിർദ്ദിഷ്ട ഒബ്ജക്റ്റിന്റെ ബൈനറിയിൽ ചില കോഡ് ഉൾപ്പെടുത്തി കൺഫൈൻമെൻറ് ലഭിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നു എന്നിരുന്നാലും സെഗ്മെന്റ് മാച്ചിംഗിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ അഡ്രസ്സ് സാൻഡ്ബോക്സിങ് ആണ് നടക്കുന്നത് ഇതിൽ അൺ സേഫ് ഇൻസ്ട്രക്ഷൻ ൻറെ ടാർജറ്റ് അഡ്രസിൻറെ ഹയർ ബീറ്റ്സ് സെഗ്മെൻറ് ഐഡി ആയി സെറ്റ് ചെയ്യുന്നു ഇത് ഇനിപ്പറയുന്ന രീതിയിൽ ചെയ്യുന്നു അതിൽ നമ്മൾ ചെയ്യുന്നത് ഒരു പ്രത്യേക രജിസ്റ്ററിൽ ഉള്ള ടാർഗെറ്റ് അഡ്രസ്സ് എടുത്ത് മാസ്ക് ചെയ്യുക എന്നതാണ് ഇത് എങ്ങനെ ചെയ്തുവെന്ന് നമുക്ക് നോക്കാം ടാർഗെറ്റ്അഡ്രസ്സ് r0 ആണെന്ന് വിചാരിക്കുക അതിന്റെ വാല്യൂ 0xb3452356 എന്ന് വിചാരിക്കുക ആദ്യം മാസ്ക് പ്രയോഗിക്കുകയും അതിൻറെ റിസൾട്ട് ഒരു സമർപ്പിത രജിസ്റ്ററിൽ സംഭരിക്കുകയും ചെയ്യുന്നു ഇത് 36452356 പോലെ കാണപ്പെടുന്നു കൂടാതെ ഇത് AND മാസ്ക് രജിസ്റ്ററിൽ 0x0000FFFF ഉപയോഗിച്ച് മാസ്ക് ചെയ്യുന്നു ഇത് നിങ്ങൾക്ക് 0x00002356 പോലുള്ള ഒന്ന് നൽകും ഇപ്പോൾ രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ സെഗ്മെന്റ് രജിസ്റ്ററിർ ആയി OR ചെയ്യുന്നു ഇവിടെ r30 യുടെ വാല്യൂ 0x00002356 ന് തുല്യമാണ് ഇത് 0xabcd0000 ഉപയോഗിച്ച് OR ചെയ്യുമ്പോൾ 0xabcd2356 ആയിരിക്കും കിട്ടുന്നത് തുടർന്ന് ഇത് പ്രത്യേക സ്ഥലത്തേക്ക് പ്രത്യേകമായി സംഭരിക്കുകയോ അല്ലെങ്കിൽ ആ അഡ്രസിലേക്ക് ജമ്പ് ചെയ്യുകയോ ചെയ്യുന്നു ഇവിടെ സുരക്ഷിതമല്ലാത്ത എല്ലാ സ്റ്റോറുകളും ജമ്പുകളും ഈ പ്രത്യേക സെഗ്മെന്റിനുള്ളിലാണെന്ന് ഉറപ്പാക്കുന്നു ഇവിടെ സുരക്ഷിതമല്ലാത്ത എല്ലാ സ്റ്റോറുകളും ജമ്പുകളും ഈ പ്രത്യേക സെഗ്മെന്റിനുള്ളിലാണെന്ന് ഉറപ്പാക്കുകയും സുരക്ഷിതമല്ലാത്ത സ്റ്റോർ ജമ്പ് നിർദ്ദേശങ്ങൾ എന്നിവ പരിഷ്ക്കരിക്കുകയും ചെയ്തു അതിനാൽ ഏതെങ്കിലും സുരക്ഷിതമല്ലാത്ത നിർദ്ദേശങ്ങൾ എല്ലായ്പ്പോഴും ആ സെഗ്മെന്റ് അതിർത്തിയിൽ പരിമിതപ്പെടുത്തിയിരിക്കുന്നുവെന്ന് ഞങ്ങൾക്ക് ഉറപ്പിക്കാൻ കഴിയും അടുത്തതായി നമ്മൾ ക്രോസ് ഫോൾട്ട് ഡൊമെയ്ൻ ആർപിസി നോക്കുന്നു ഇതിൽ നമുക്ക് രണ്ട് ഫോൾട്ട് ഡൊമെയ്നുകൾ ഉണ്ട് ഫോൾട്ട് ഡൊമെയ്ൻ 1 ഈ സ്ഥാനങ്ങളിൽ പരിമിതപ്പെടുത്തിയിരിക്കുന്നു ഫോൾട്ട് ഡൊമെയ്ൻ 2 ഈ സ്ഥാനങ്ങളിൽ പരിമിതപ്പെടുത്തിയിരിക്കുന്നു ഈ ഫോൾട്ട് ഡൊമെയ്നുകളിൽ ഓരോന്നിനും വ്യത്യസ്ത സെഗ്മെന്റ് ഐഡികൾ ഉണ്ടായിരിക്കുമെന്ന് നമുക്കറിയാം ഒരു ഫോൾട്ട് ഡൊമെയ്നിലുള്ള ഒരു ഫംഗ്ഷൻ നിരവധി തവണ മറ്റൊരു ഫോൾട്ട് ഡൊമെയ്നിൽ നിലവിലുള്ള മറ്റൊരു ഫംഗ്ഷനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ ഈ ഫംഗ്ഷൻ ഇൻവോക്കേഷനുകൾ ശരിയായതും നിയന്ത്രിതവുമായ രീതിയിലാണ് ചെയ്യുന്നതെന്ന് ഉറപ്പാക്കാൻ കഴിയണം ഇത് നേടാൻ നമ്മൾ ജമ്പ് ടേബിൾ ചേർക്കുന്നു അത് ഇവിടെ സ്റ്റബ് റിട്ടേൺ സ്റ്റബ് എന്ന് അറിയപ്പെടുന്നു അതിനാൽ എല്ലാ നിയമപരമായ കോളുകൾക്കും ജമ്പ് അഡ്രസ്സിൽ നോക്കുന്നു തുടർന്ന് കോൾ സ്റ്റബ് ഇൻവോക് ചെയ്യുന്നു ഇത് ജമ്പ് ടേബിളിൽ നിന്നും ഫങ്ക്ഷൻറെ ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് കണ്ടുപിടിച്ചു അതിനെ ഇൻവോക് ചെയ്യുകയും മറ്റൊരു പാതയിലൂടെ നിലവിലെ ഫംഗ്ഷനിലേക്ക് തിരികെ നൽകുന്നു സ്റ്റബ് ഉം റിട്ടേൺ സ്റ്റബ് ഉം ഉപയോഗിച്ചു ഒരു നിശ്ചിത ചാനൽ വഴി ഡൊമൈൻ നു പുറത്തുള്ള ഫങ്ക്ഷനെ നമുക്ക് കോൾ ചെയ്യാം ഈ സ്റ്റബുകൾ കോൾ സ്റ്റബും റിട്ടേൺ സ്റ്റബുകളും വിശ്വസനീയമാണെന്നാണ് ഇപ്പോൾ അനുമാനങ്ങൾ അവ ഡവലപ്പർ തന്നെ നിർമ്മിച്ച വളരെ ചെറിയ കോഡുകളായിരിക്കും കൂടാതെ തെറ്റായ ഡൊമെയ്ൻ ഉപയോഗിക്കാവുന്ന ബഗുകളോ കേടുപാടുകളോ ഇല്ല രണ്ടാമതായി ഈ സ്റ്റബും റിട്ടേൺ സ്റ്റബും തെറ്റായ ഡൊമെയ്നിന് പുറത്തുള്ളതിനാൽ കോൾ സ്റ്റബിന്റെയോ റിട്ടേൺ സ്റ്റബിന്റെയോ ഉള്ളടക്കം യഥാർത്ഥത്തിൽ പരിഷ്കരിക്കാൻ ഒരു ഫങ്ക്ഷനും കഴിയില്ല അതിനാൽ ഈ സ്റ്റബുകളിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഓരോ തവണയും ഇൻവോക് ചെയ്യുമ്പോൾ രജിസ്റ്ററുകൾ അടങ്ങുന്ന മെഷീൻ സ്റ്റേറ്റ് സ്റ്റബിലുള്ള മെമ്മറി ലൊക്കേഷനിൽ സൂക്ഷിക്കുന്നു എന്നതാണ് അതുപോലെ തന്നെ എക്സിക്യൂഷൻ സ്റ്റാക്കിന്റെ സ്വിച്ച് ഉണ്ട് കൂടാതെ ഈ ഫോൾട് ഡൊമെയ്നിൽ നിന്ന് മറ്റ് ഫോൾട് ഡൊമെയ്നിലേക്ക് ആർഗ്യുമെന്റുകളുടെ ഒരു പകർപ്പും ഉണ്ട് ഈ സ്റ്റബുകൾക്ക് ചില പ്രത്യേക ഗുണങ്ങളുണ്ട് ആദ്യത്തേത് സ്റ്റബുകൾ വിശ്വസനീയമാണ് കോൾ സ്റ്റബ് റിട്ടേൺ സ്റ്റബ് എന്നിവ അടങ്ങിയ കോഡ് വളരെ ചെറുതാണ് അവ നന്നായി ടെസ്റ്റ് ചെയ്തതാണ് കൂടാതെ ബഗുകളോ കേടുപാടുകളോ ഇല്ല രണ്ടാമത് ഈ സ്റ്റബുകൾ തെറ്റായ ഡൊമെയ്നിന് പുറത്താണ് അതിനാൽ ഇത് ചെയ്യുന്നതിലൂടെ ഫോൾട് ഡൊമെയ്നിലെ ഏത് പ്രവർത്തനത്തിനും കോൾ സ്റ്റബിനെയും റിട്ടേൺ സ്റ്റബിനെയും യഥാർത്ഥത്തിൽ പരിഷ്കരിക്കാനാവില്ലെന്ന് ഉറപ്പാക്കും അതിനാൽ ഈ സ്റ്റബുകളിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഒരു ഇൻവോക്കേഷൻ ഉണ്ടാകുമ്പോഴെല്ലാം പ്രത്യേക ഫോൾട് ഡൊമെയ്നിൽ നിലവിലുള്ള കോൾ സ്റ്റബ് രജിസ്റ്ററുകൾ അടങ്ങിയ മെഷീന്റെ അവസ്ഥയെ സൂക്ഷിക്കുന്നു ഇത് ഈ ഡൊമെയ്നിൽ നിന്ന് ഈ ഡൊമെയ്നിലേക്ക് എക്സിക്യൂഷൻ സ്റ്റാക്ക് മാറ്റുകയും പ്രത്യേക ഫംഗ്ഷനായുള്ള ആർഗ്യുമെന്റുകൾ മറ്റ് ഡൊമെയ്നിലേക്ക് പകർത്തുകയും ചെയ്യും റിട്ടേൺ സമയത്ത് റിവേഴ്സ് പ്രോസസ് സംഭവിക്കുന്നു റിട്ടേൺ സ്റ്റബിൽ ഡൊമെയ്ൻ 1 ന്റെ എല്ലാ അവസ്ഥയും എക്സിക്യൂഷൻ സ്റ്റാക്ക് ഉം പുന സ്ഥാപിക്കുന്നു അതിനാൽ ഓരോ തവണയും ഒരു ക്രോസ് ഡൊമെയ്ൻ ഫംഗ്ഷൻ കോൾ സ്റ്റബിനെ കോൾ ചെയ്യുകയ്യും റിട്ടേൺ സ്റ്റബ് ഫോൾട് ഡൊമെയ്ൻ 1 ൽ നിന്ന് ഫോൾട് ഡൊമെയ്ൻ 2 ലേക്ക് കൃത്യമായി മാറുകയും തിരിച്ചു വരികയും ചെയ്യുന്നു എന്നു ഉറപ്പാക്കുകയും ചെയ്യും ഇപ്പോൾ നിങ്ങൾ ഓർമിക്കുന്നത് ആർപിസി സമയത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെയ്യുന്നതിനോട് സമാനമാണ് എന്നിരുന്നാലും ഇവിടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്ന് വ്യത്യസ്തമായി ഓവർഹെഡുകൾ വളരെ കുറവാണ് അതിനാൽ കോണ്ടെക്സ്റ്റ് സ്വിച്ച് ഇല്ല ഇൻട്രപ്ട് സംഭവിക്കുന്നില്ല അതിനാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ കോണ്ടെക്സ്റ്റ് സ്വിച്ചുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സോഫ്റ്റ്വെയർ ഫോൾട്ട് ഇൻസുലേഷനുനിലെ സ്സ്റ്റബ് മെക്കാനിസം വളരെ കാര്യക്ഷമമാണ് ഇത് ചിന്തിക്കേണ്ട കാര്യമാണ് ഇതുപോലെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെന്ന് കരുതുക ഇതാണ് ആപ്ലിക്കേഷൻ പ്രോസസ്സ് ഈ പ്രോസസ്സിനു ഉള്ളിൽ ഐസൊലേറ്റഡ് അന്തരീക്ഷം സൃഷ്ടിച്ചു ഈ ഒറ്റപ്പെട്ട പരിതസ്ഥിതിയിൽ ഈ രണ്ട് പ്രസ്താവനകളും ഉണ്ട് buf10 buf100 ഒരു വാല്യൂ അത്തരമൊരു സാഹചര്യത്തിൽ എന്ത് സംഭവിക്കും അതിനാൽ പരിഗണിക്കേണ്ട മറ്റൊരു കാര്യം സിസ്റ്റം റിസോഴ്സുമായി ബന്ധപ്പെട്ട് ഒരു ഫോൾട് ഡൊമെയ്ൻ തുറക്കുന്നതോ ആക്സസ് ചെയ്യുന്നതോ ആയ ഫയലുകളോ മറ്റ് സിസ്റ്റം ഘടകങ്ങളോ മറ്റൊരു ഫോൾട് ഡൊമെയ്നിൽ നിന്ന് ആക്സസ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ മറ്റൊരു ഫോൾട് ഡൊമെയ്നിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നു എന്ന് എങ്ങനെ ഉറപ്പാക്കും ഉദാഹരണത്തിന് ഒരു ഫോൾട് ഡൊമെയ്ൻ ഹാർഡ് ഡിസ്കിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു ഫയൽ ക്രീയേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക ഇപ്പോൾ ഒരു സാധാരണ യുണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പോലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രത്യേക പ്രോസസ്സിനെ അടിസ്ഥാനമാക്കി അനുമതികൾ നൽകും അതിനാൽ എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രത്യേക പ്രോസസ്സിനെ അടിസ്ഥാനമാക്കി ഫയൽ അനുമതികൾ നേടും അത്തരമൊരു സ്കീമിൽ നിലവിലുള്ള ഫോൾട് ഡൊമെയ്നുകളെക്കുറിച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് അറിയില്ല അത്തരമൊരു സാഹചര്യത്തിൽ സംഭവിക്കാനിടയുള്ളത് രണ്ടാമത്തെ ഫോൾട് ഡൊമെയ്നിനും ആ പ്രത്യേക ഫയലിലേക്ക് ആക്സസ് ഉണ്ടായിരിക്കാം എന്നതാണ് അതിനാൽ ഇതിന് ആ ഫയൽ ഇല്ലാതാക്കാനോ ആ ഫയലിലെ ഉള്ളടക്കങ്ങൾ പരിഷ്കരിക്കാനോ കഴിയും ഇത് തികച്ചും അനാവശ്യമാണ് രണ്ട് ഫോൾട് ഡൊമെയ്നുകൾ ഉള്ളപ്പോഴെല്ലാം ഒരു ഫോൾട് ഡൊമെയ്ൻ സൃഷ്ടിച്ച ഫയലുകളോ മറ്റേതെങ്കിലും സിസ്റ്റം ഘടകങ്ങളോ എല്ലാം ഒരേ പ്രോസസ്സിൽ ആണെങ്കിലും രണ്ടാമത്തെ ഫോൾട് ഡൊമെയ്നിലെ കോഡ് വഴി ആക്സസ് ചെയ്യാൻ കഴിയില്ലെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് ഈ സാഹചര്യം കൈകാര്യം ചെയ്യുന്നതിന് യഥാർത്ഥത്തിൽ രണ്ട് വഴികളുണ്ട് ഒരു വഴി ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ പാച്ച് ചെയ്യുക എന്നതാണ് അതിലൂടെ OS ന് പ്രോസസ്സിനെക്കുറിച്ച് അറിയുക മാത്രമല്ല നിർദ്ദിഷ്ട പ്രോസസ്സിൽ നിലവിലുള്ള വിവിധ ഫോൾട് ഡൊമെയ്നുകളെക്കുറിച്ചും അറിയാൻ സാധിക്കും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു ഫയൽ തുറക്കുന്നതിനുള്ള അഭ്യർത്ഥന കാണുമ്പോഴെല്ലാം അത് ഫോൾട് ഡൊമെയ്ൻ 1 ൽ നിന്നാണോ അല്ലെങ്കിൽ ഫോൾട് ഡൊമെയ്ൻ രണ്ടിൽ നിന്നാണോ വരുന്നതെന്ന് അറിയുകയും ഇത് അടിസ്ഥാനമാക്കി ആക്സസ് അനുമതികൾ പരിശോധിക്കുകയും ചെയ്യാം ഇതിന് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ കാര്യമായ മാറ്റങ്ങൾ ആവശ്യമാണ് പ്രത്യേക ഈ സാങ്കേതിക വിദ്യ പോർട്ടബിൾ അല്ലാത്തതാക്കേണ്ടതുണ്ട് അതിനാൽ ഈ മുഴുവൻ സോഫ്റ്റ്വെയർ ഫോൾട് ഐസൊലേഷനും ആശങ്കപ്പെടേണ്ട മറ്റൊരു കാര്യമുണ്ട് അത് സിസ്റ്റം റിസോഴ്സ് ആയി ബന്ധപ്പെട്ടതാണ് അതിനാൽ നമുക്ക് ഒരു പ്രോസസ്സ് ഉണ്ടെന്നും ഈ പ്രോസസ്സിൽ 2 ഫോൾട് ഡൊമെയ്നുകൾ ഫോൾട് ഡൊമെയ്ൻ 1 ഫോൾട് ഡൊമെയ്ൻ 2 എന്നിവ ഉണ്ടെന്നും കരുതുക ഇപ്പോൾ ഫോൾട് ഡൊമെയ്ൻ 1 ഒരു സിസ്റ്റം കോൾ ഉപയോഗിച്ച് ഒരു പ്രത്യേക ഫയൽ സൃഷ്ടിക്കുന്നു സിസ്റ്റം കോളുകൾ ഉണ്ടെന്ന് കരുതുക ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫയൽ സൃഷ്ടിക്കുകയും ഹാർഡ് ഡിസ്കിൽ ആ പ്രത്യേക ഫയൽ സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നു ഫോൾട് ഡൊമെയ്ൻ 1 സൃഷ്ടിച്ച നിർദ്ദിഷ്ട ഫയലിലേക്ക് ഫോൾട് ഡൊമെയ്ൻ 2 ന് പ്രവേശനമില്ലെന്ന് ഇപ്പോൾ ഉറപ്പാക്കേണ്ടതുണ്ട് ഒരു സാധാരണ സാഹചര്യത്തിൽ ഇത് സാധ്യമല്ല കാരണം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് പ്രോസസ്സിലെ വിവിധ ഫോൾട് ഡൊമെയ്നുകളെക്കുറിച്ച് അറിയില്ല അതിനു ആ പ്രത്യേക പ്രോസസ്സിനെകുറിച്ചു മാത്രമേ അറിയൂ അതിനാൽ അത് നിർദ്ദിഷ്ട പ്രോസസ്സിനു അനുയോജ്യമായ അനുമതികളോടെ ഫയൽ ക്രീയേറ്റ് ചെയ്യും ഒരു സാധാരണ സാഹചര്യത്തിൽ ഫോൾട് ഡൊമെയ്ൻ 1 നും ഫോൾട് ഡൊമെയ്ൻ 2 നും ഒരു പ്രത്യേക ഫയലിലേക്ക് ആക്സസ് ഉണ്ടായിരിക്കും ഇത് ഒരു പ്രശ്നമാണ് കാരണം ഫോൾട് ഡൊമെയ്ൻ 2 വിശ്വസനീയമല്ലാത്തതിനാൽ ആ പ്രത്യേക ഫയൽ പരിഷ്ക്കരിക്കുകയോ അല്ലെങ്കിൽ ആ ഫയൽ ഇല്ലാതാക്കുകയോ ചെയ്യാം അതിനാൽ അത്തരമൊരു കാര്യം ഇല്ലാത്ത ഒരു സംവിധാനം നമുക്ക് ആവശ്യമാണ് മുമ്പ് കണ്ട ഒരു നിസ്സാര മാർഗം അത്തരം സിസ്റ്റം കോളുകളോ ഇൻട്രപ്റ്റുകളോ തടയുക എന്നതാണ് അതിനാൽ ഫോൾട് ഡൊമെയ്നുകൾക്ക് ഒരിക്കലും ഒരു സിസ്റ്റം കോൾ വിളിക്കാനോ അത്തരം ഫയലുകൾ ക്രീയേറ്റ് ചെയ്യാനോ കഴിയില്ല ഒരു പ്രോസസ്സിൽ ഒന്നിലധികം ഫോൾട് ഡൊമെയ്നുകൾ ഉണ്ടെന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ അറിയിക്കുക എന്നതാണ് മറ്റൊരു വഴി ഫയലുകളോ മറ്റേതെങ്കിലും സിസ്റ്റം റിസോഴ്സുകളോ പ്രോസസ്സിലെ ഫോൾട് ഡൊമൈനോ ഒരു പ്രത്യേക പ്രോസസ്സുമായി ബന്ധിപ്പിക്കുന്ന തരത്തിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പരിഷ്കരിക്കേണ്ടതുണ്ട് കൂടാതെ ആ പ്രത്യേക പ്രോസസ്സിനുള്ളിൽ നിലവിലുള്ള എല്ലാ ഫോൾട് ഡൊമെയ്നുകളെക്കുറിച്ചും ഒഎസിന് അറിയാമെങ്കിൽ ഫോൾട് ഡൊമെയ്ൻ 1 ന് ആക്സസ് ചെയ്യാനാകാത്ത ഒരു പ്രത്യേക ഫയൽ സൃഷ്ടിക്കാൻ ഫോൾട് ഡൊമെയ്ൻ 2 ന് കഴിയും എന്നിരുന്നാലും ഇതിൽ രണ്ട് പ്രശ്നങ്ങളുണ്ട് ആദ്യം ഇത് മുഴുവൻ സ്കീമും പോർട്ടബിൾ അല്ലാത്തതാക്കുന്നു രണ്ടാമതായി ഇതിന് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഉപയോഗയോഗ്യമായ മാറ്റിയെഴുത്ത് ആവശ്യമാണ് ഒബ്ജക്റ്റ് ഫയലിലൂടെ പാഴ്സുചെയ്യുമ്പോൾ ഒരു സിസ്റ്റം കോൾ അല്ലെങ്കിൽ ഇന്ററപ്റ്റ് കാണുമ്പോൾ ഇത് ഒരു ക്രോസ് ഫോൾട്ട് ഡൊമെയ്ൻ ആർപിസി ഉപയോഗിച്ച് വിശ്വസനീയവും സിസ്റ്റം കോളുകൾ കൈകാര്യം ചെയ്യുന്നതുമായ ഒരു പ്രത്യേക ഫോൾട് ഡൊമൈനിലേക്ക് മാറ്റിസ്ഥാപിക്കും അതിനാൽ ഈ പ്രത്യേക ഫോൾട്ട് ഡൊമെയ്ൻ എല്ലാ സിസ്റ്റം കോളുകളും സാധുതയുള്ളതാണോയെന്ന് പരിശോധിക്കുകയും ഉറപ്പു വരുത്തുകയും ചെയ്യും ഉദാഹരണത്തിന് ഫോൾട്ട് ഡൊമെയ്ൻ 1 ഒരു ഫയൽ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ആദ്യം വിശ്വസനീയമായ ഒരു ഫോൾട്ട് ഡൊമെയ്നിലേക്ക് ക്രോസ് ഫോൾട്ട് ഡൊമെയ്നിന് കാരണമാകും ഇത് വിവിധ പരിശോധനകൾ നടത്തി ഫോൾട്ട് ഡൊമെയ്നിന് ഒരു ഫയൽ സൃഷ്ടിക്കാനുള്ള കഴിവുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും തുടർന്ന് സിസ്റ്റം കോൾ അഭ്യർത്ഥിക്കുകയും ചെയ്യും അതിനു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു മൂല്യം നൽകുന്നു ഇപ്പോൾ നമുക്ക് പറയാം ഒരു ഫോൾട്ട് ഡൊമെയ്ൻ 2 അതേ ഫയൽ തുറക്കാനോ പരിഷ്കരിക്കാനോ ഇല്ലാതാക്കാനോ ശ്രമിക്കുന്നു ഇത് ക്രോസ് ഫോൾട്ട് ഡൊമെയ്ൻ ആർപിസിയിൽ കലാശിക്കും എല്ലാ സിസ്റ്റം കോളുകളും കൈകാര്യം ചെയ്യുന്ന ആർപിസി ഇത് അനുവദനീയമല്ലെന്ന് തിരിച്ചറിയുന്നു കാരണം ഫോൾട്ട് ഡൊമെയ്ൻ 2 ഫോൾട്ട് ഡൊമെയ്ൻ 1 സൃഷ്ടിച്ച ഒരു ഫയൽ തുറക്കാൻ ശ്രമിക്കുന്നു ഇത് അത്തരമൊരു അഭ്യർത്ഥനയെ തടയും നമ്മൾ ഉപസംഹരിക്കുന്നതിന് മുമ്പ് ഇത് ചിന്തിക്കേണ്ട കാര്യമാണ് ഇവിടെ ഒരു പ്രോസസ്സ് ഉണ്ടെന്നും ഈ പ്രത്യേക പ്രോസസിന്റെ ഉള്ളിൽ ഒരു കൺഫൈൻഡ് ഏരിയ ഉണ്ടെന്നും അവിടെ ഇതുപോലുള്ള ഇൻസ്ടക്ഷൻ ഉണ്ടെന്നും വിചാരിക്കുക ഇവിടെ കാണിച്ചിരിക്കുന്നതുപോലെ കോഡിൽ ഒരു ബഫർ ഓവർഫ്ലോ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് അതിനാൽ കൺഫൈൻമെന്റിനെ കുറിച്ചുള്ള പ്രഭാഷണങ്ങൾ നമ്മൾ അവസാനിപ്പിക്കുന്നു കൺഫൈൻമെൻറ് നേടാനുള്ള രണ്ട് വഴികൾ നമ്മൾ കണ്ടു ഒന്ന് OKWS മൊഡ്യൂളാണ് അവിടെ ഒരു വലിയ ആപ്ലിക്കേഷനെ നിരവധി ചെറിയ പ്രോസസ്സ് ആയി വിഭജിക്കുന്നു കൂടാതെ ഓരോ പ്രോസസും ഓപ്പറേറ്റിംഗ് സിസ്റ്റം നൽകുന്ന മെക്കാനിസങ്ങളുടെ ഫലമായി പരസ്പരം പരിരക്ഷിക്കപ്പെടും രണ്ടാമത്തെ മാർഗ്ഗം സോഫ്റ്റ്വെയർ ഫോൾട്ട് ഇൻസുലേഷൻ മെക്കാനിസമാണ് അത് വളരെ ഭാരം കുറഞ്ഞതും ഞങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു പ്രോസസ് ഉള്ള വെബ് ബ്രൌസർ പോലുള്ള കാര്യങ്ങൾക്ക് അനുയോജ്യവുമാണ് മാത്രമല്ല ആ പ്രോസസിന്റെ ഉള്ളിൽ പ്രൈവറ്റ് കമ്പാർട്ടുമെന്റുകൾ സൃഷ്ടിക്കാൻ കഴിയും അതിനാൽ ഈ ഫോൾട് ഡൊമെയ്നുകൾ ആ പ്രത്യേക ഫോൾട് ഡൊമെയ്ൻ നൽകിയ അതിരുകളാൽ പരിമിതപ്പെടുത്തിയിരിക്കുന്നു അതിനാൽ അടുത്ത ക്ലാസിൽ ട്രസ്റ്റഡ് എക്സിക്യൂഷൻ എൻവയോൺമെൻറ് എന്നറിയപ്പെടുന്ന മറ്റൊരു സ്കീമിലേക്ക് നോക്കുന്നു നന്ദി